ന്യൂക്ലിയർ മെക്കാനോട്രാൻസ്ഡ്ക്ഷൻ ജീൻ റെഗുലേഷൻ ഹലോ ഇന്നത്തെ ക്ലാസ് ആയ പ്രവർത്തന ജീവശാസ്ത്രത്തിൻ്റെ മെക്കാനോബയോളജിയുടെ ആമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാന ക്ലാസ്സിൽ നമ്മൾ മർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഘടനയെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു ഇന്നു ഞാൻ പ്രധാനമായിട്ടും ലിങ്ക് എന്ന ഈ കോംപ്ലക്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ലിങ്ക് എന്നാൽ ലിങ്കർ ഓഫ് ന്യൂക്ലിയർ സ്കെലട്ടെൻ ആൻഡ് സൈറ്റോസ്കെലട്ടെൻ ആണ് ആക്റ്റിൻ അല്ലെങ്കിൽ മൈക്രോ ട്യൂബുലാർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫിലമെൻറ് സ്കെലട്ടെനുകളെ ന്യൂക്ലിയസിന് അകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ കണക്ഷനുകൾ ആയ ലിങ്ക് കോംപ്ലക്സുകൾ വഴിയാണ് ഞാൻ ന്യൂക്ലിയസിനെ സൂം ചെയ്തു നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് ഒരു ഇരട്ട സ്തരം ഉള്ള സിസ്റ്റമാണെന്ന് കാണാം ന്യൂക്ലിയസിന് ഒരു ബാഹ്യസ്തരവും ഒരു ആന്തരസ്തരവും ഉണ്ട് ആന്തരമർമ്മസ്തരത്തിനകത്ത് ലാമിൻ പ്രോട്ടീനുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇതിൽ അകത്ത് ലാമിൻ എ യും പുറത്ത് ലാമിൻ ബി യുമുണ്ട് സൈറ്റോസ്കെലട്ടനിലേക്ക് നെസ്പ്രിൻ പ്രോട്ടീനുകൾ വഴി കണക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ലിങ്കുകൾ ഉണ്ട് ഇത് ന്യൂക്ലിയസിന് പുറത്തുനിന്ന് ന്യൂക്ലിയസിനുള്ളിലേക്ക് നേരിട്ട് ഒരു ഫിസിക്കൽ കണക്ഷൻ സ്ഥാപിക്കുന്നു ലാമിൻ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കുറെ സമയമെടുത്തു ചർച്ച ചെയ്തിരുന്നു ലാമിനുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ലാമിൻ പ്രോട്ടീനുകളാണ് ഉള്ളത് ലാമിൻ എയും ലാമിൻ ബി യും ലാമിൻ എയുടെ ജീനിൽ നിന്ന് ആൾട്ടർനേറ്റീവ് സപ്ലൈസിങ് വഴി വീണ്ടും രണ്ട് തരത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ടാവുന്നു ലാമിൻ എയും ലാമിൻ സി യും സാധാരണയായി ഇതെഴുതുന്നത് ലാമിൻ എസി Lamin AC എന്നാണ് കൂടാതെ ലാമിൻ ബി ലാമിൻ ബി 1 ഉം ബി 2 ഉംആയി കാണുന്നു അടുത്തിടെ തെളിയിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ മൃദുകലകളിലെ കോശങ്ങളിൽ ലാമിൻ ബി കൂടുതലാണ് അതേസമയം കടുപ്പമുള്ള കലകളിലെ കോശങ്ങളിൽ ലാമിൻ എസി Lamin AC കൂടുതലാണ് നിങ്ങൾ ലാമിൻ എയുടെയും ബി യുടെയും സ്റ്റോയ്ക്കിയോമെട്രി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊരു ബന്ധം ആണ് കിട്ടുന്നത് ഇവിടെ എക്സ് അക്ഷത്തിൽ ടിഷ്യു ഇലാസ്തികതയും വൈ അക്ഷത്തിൽ എ ടു ബി സ്റ്റോയ്ക്കിയോമെട്രിയുമാണ് എടുക്കുന്നത് അതിനാൽ ഇങ്ങനെയൊരു സ്കെയിലിംഗ് ബന്ധമാണ് കിട്ടുന്നത് ഇവിടെ സ്കെയിലിംഗ് ബന്ധം ഒന്നിൽ താഴെയാണ് മൃദു കലകളായ മസ്തിഷ്കത്തിലെ ഗ്ലയോമ കോശങ്ങൾക്ക് കിട്ടുന്നത് അതായത് ലാമിൻ എ യും ബി യും തമ്മിലുള്ള അനുപാതം ഒന്നിൽ കുറവാണ് എന്നാൽ കഠിന കലകളായ തരുണാസ്ഥി അസ്ഥി പേശികൾ കൂടാതെ മീസെൻകൈമൽ മൂലകോശങ്ങളിൽ എ യും ബി യും തമ്മിലുള്ള അനുപാതം വളരെ കൂടുതലാണ് മെക്കാനിക്കലി പറയുകയാണെങ്കിൽ എയും ബിയും പ്രവർത്തിക്കുന്നത് രണ്ട് വ്യത്യസ്ത വസ്തുക്കളായിട്ടാണ് ലാമിൻ എ പ്രവർത്തിക്കുന്നത് ഒരു സ്പ്രിങ് പോലെയാണ് എന്നാൽ ലാമിൻ ബി പ്രവർത്തിക്കുന്നത് ഒരു ഡാഷ് പോട്ട് പോലെ അല്ലെങ്കിൽ വഴുവഴുപ്പുള്ള ഒരു വസ്തു പോലെയാണ് മൊത്തത്തിൽ ഈ രണ്ടു പ്രോട്ടീനുകളും കൂടി ചേർന്നാണ് എക്സ്പ്രഷൻ സാധ്യമാക്കുന്നത് ഇത് എയുടെ റെസ്പോൺസ് ആണ് ഇത് ബിയുടെ റെസ്പോൺസ് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ന്യൂക്ലിയസിന് രൂപമാറ്റം വരുത്തുകയാണെങ്കിൽ ലാമിൻ ബി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്രസ്വകാല പ്രതികരണം ഉണ്ടാകുന്നു എന്നാൽ ദീർഘകാല പ്രതികരണങ്ങൾ ലാമിൻ എ ഡോമിനേറ്റഡ് ആണ് ഇന്ന് ഞാൻ ന്യൂക്ലിയസിനെ കുറിച്ച് ചർച്ച ചെയ്തതിൻ്റെ ആദ്യ ഭാഗമായിരുന്നു ഇത് ചില പ്രത്യേക നിയന്ത്രണങ്ങളിൽ സെൽ മോട്ടിലിറ്റിയിൽ അല്ലെങ്കിൽ സെൽ മൈഗ്രേഷനിൽ ലാമിൻ എ യുടെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് രണ്ടാം ഭാഗം ലാമിൻ എ യുടെ ഉയർന്ന അളവ് ന്യൂക്ലിയസിനെ കൂടുതൽ കടുപ്പമുള്ളതാക്കി മാറ്റുന്നു ശരിക്കും ഉയർന്ന അളവിലുള്ള ലാമിൻ എ മൈഗ്രേഷനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിമിതമായ മൈഗ്രേഷൻ ആണ് എന്നാൽ ലാമിൻ എ യുടെ അളവ് വളരെ കുറവാണെങ്കിൽ അത് ന്യൂക്ലിയസിൻ്റെ കേടുപാടുകൾക്കും കാരണമാകുന്നു ഇന്നത്തെ അടുത്ത രണ്ട് ലെക്ച്ചറുകളിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് ന്യൂക്ലിയസിന് രൂപമാറ്റം ഉണ്ടാകുന്നത് ഇത് ജീൻ എക്സ്പ്രഷനെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ക്രൊമാറ്റിൻ ഡൈനാമിക്സുകൾ വഴിയാണ് യാപ് ടാസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിൻ്റെ YAPTAZ transcription factor ഉദാഹരണം ഞാൻ ഇതിനകം എടുത്തിട്ടുണ്ട് മെക്കാനിക്കൽ സിഗ്നലുകളോടുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് ഇവ ന്യൂക്ലിയസിനുള്ളിലേക്ക് ട്രാൻസ്ലോക്കറ്റ് ചെയ്യുന്നത് അതിറോസ്ക്ളിറോസിസിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഓസ്സിലറ്ററി ഷിയർ സ്ട്രെസ്സിനോടുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് യാപ് ടാസ് YAPTAZ സിഗ്നലുകൾ ന്യൂക്ലിയസിനുള്ളിലേക്ക് ട്രാൻസ്ലോക്കറ്റ് ചെയ്യുന്നത് ഇതേ പോലെയുള്ള മറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകളും ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ടവ എൻ എഫ് കെബി സിഗ്നലിങ് സ്റ്റാറ്ററ്റ് സിഗ്നലിങ് കൂടാതെ എം ആർ ടി എഫ് പാതകളാണ് ഇവയും ഇതേ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവ ന്യൂക്ലിയസിനുള്ളിലേക്ക് ട്രാൻസ്ലോക്കറ്റ് ചെയ്യുന്നു ഈ ട്രാൻസ്ലോക്കെഷനുകൾ എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നു നോക്കാം ഇവ യഥാർത്ഥത്തിൽ ജീൻ എക്സ്പ്രഷൻ്റെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു ഇന്ന് രണ്ടു പേപ്പറുകൾ സംക്ഷിപ്തമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പേപ്പറിൽ കോശങ്ങളുടെ ആകൃതി ജീൻ എക്സ്പ്രഷനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് മീസെൻകൈമൽ മൂലകോശങ്ങളുടെ ഡിഫറെൻഷിയേഷനെപറ്റി നേരത്തെ ചർച്ച ചെയ്ത പേപ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണ് ഇതിൽ കോശങ്ങൾ ചെറിയ പാറ്റേണുകളിൽ പ്ലേറ്റ് ചെയ്യുമ്പോൾ അവ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് അഡിപ്പോസൈറ്റുകൾ ആവുന്നു എന്നാൽ വലിയ പാറ്റേണുകളിൽ പ്ലേറ്റ് ചെയ്യുമ്പോൾ അവ ഓസ്റ്റിയോബ്ലാസ്റ്റായിട്ടാണ് മാറുന്നത് ഇത് കോശങ്ങളുടെ ആകൃതിയെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഈ പ്രത്യേക പഠനത്തിൽ രചയിതാവ് എന്താണ് ചെയ്തതെന്നുവെച്ചാൽ അവർ ഫൈബ്രോനെക്റ്റിൻ കൊണ്ട് പൊതിഞ്ഞ മൈക്രോ ഫാബ്രിക്കേറ്റഡ് ഐലൻഡുകളുടെ വിവിധ രൂപങ്ങൾ എടുത്തു ഇവ ഫൈബ്രോനെക്റ്റിൻ ഐലൻഡുകളാണ് അവർ വിവിധ ജ്യാമിതികൾ അതായത് വ്യത്യസ്ത ആകൃതിയിലുള്ള ത്രികോണങ്ങൾ ദീർഘചതുരങ്ങൾ സർക്കിളുകൾ എന്നിവ സൃഷ്ടിച്ചു മാത്രമല്ല ഇവയുടെ വലുപ്പത്തിലും മാറ്റം വരുത്തി ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് കോശത്തിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും മാറ്റം വരുത്തി ഈ ഐലൻഡുകളുടെ ആകൃതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് കോശത്തിൻ്റെ ആകൃതിയിൽ മാറ്റം വരുത്തിയത് കോശങ്ങളുടെ വലുപ്പം ഐലൻഡുകളുടെ അളവുകളാൽ നിയന്ത്രിക്കപ്പെട്ടു തുടർന്ന് കോശങ്ങളെ പ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എൻ ഐ എഛ് 3T3 ഫൈബ്രോബ്ലാസ്റ്റുകളാണ് ഉപയോഗിച്ചത് ഈ വ്യത്യസ്ത പാറ്റേണുകളിൽ കോശങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ സിഗ്നലിംഗ് എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്ന് അവർ ചോദിച്ചു ആദ്യം അവർ വൃത്താകൃതിയിലുള്ളതും നീളമേറിയതുമായ രൂപങ്ങൾ തമ്മിൽ ഒരു താരതമ്യം നടത്തി വൃത്താകൃതിയിലുള്ള പാറ്റേണുകൾ കൂടുതൽ ഐസോട്രോപിക് ജ്യാമിതിയാണ് കാണിക്കുന്നത് എന്നാൽ നീളമേറിയ രൂപങ്ങൾ കൂടുതൽ പോളറൈസ്ഡ് ജ്യാമിതിയാണ് കാണിക്കുന്നത് ഇത് പോളറൈസ്ഡല്ല അല്ലെങ്കിൽ ഐസോട്രോപിക് ആണ് ഈ വൃത്താകൃതിയിലുള്ള പാറ്റേണുകളിൽ സെൽ ഡിവിഷൻ പ്രോട്ടീനുകൾ അപ്പോപ്റ്റോസിസ് ജീനുകൾ റെഗുലേറ്ററുകൾ സെൽ മാട്രിക്സ് അഡ്ഹഷൻ്റെ നെഗറ്റീവ് റെഗുലേഷൻ എന്നിവയുടെ അപ്പ് റെഗുലേഷൻ ആണ് നടക്കുന്നത് എന്നാൽ ചില സർക്കിളുകളിൽ മറ്റ് ചില സിഗ്നലുകൾ ഡൌൺ റെഗുലേഷൻ ആണ് കാണിക്കുന്നത് ഞാൻ അപ്പ് റെഗുലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ നീളമേറിയ ജ്യാമിതിയെ സംബന്ധിച്ച് ഇത് അപ്പ് റെഗുലേറ്റഡ് ആണ് സമാനമായി ഡൌൺ റെഗുലേറ്റഡായ നിരവധി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആക്റ്റിൻ സൈറ്റോസ്ക്ലെട്ടൺ മെഷിനറികൾ ഉണ്ടായിരുന്നു എല്ലാ ആക്റ്റിൻ ക്രോസ് ലിങ്കിംഗ് പ്രോട്ടീനുകളും ഡൌൺ റെഗുലേറ്റഡായിരുന്നു സെൽ മൈഗ്രേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷൻ ഡൌൺ റെഗുലേറ്റഡായിരുന്നു അങ്ങനെ സെൽ സബ്സ്ട്രേറ്റ് അഡഹഷനെ അത് തടസ്സപ്പെടുത്തി അവർ ഇതിലെ വ്യത്യാസങ്ങൾ നിരീക്ഷിച്ചു ട്രയങ്കുലർ ജോമട്രിയാണ് ഉപയോഗിച്ചത് ഒരു ചെറിയ ത്രികോണത്തെ ഒരു വലിയ ത്രികോണവുമായി താരതമ്യപ്പെടുത്തി ചെറിയ ത്രികോണങ്ങളിൽ അപ്പ് റെഗുലേറ്റഡായിട്ടുള്ള നിരവധി സിഗ്നലിംഗ് പാതകളുണ്ടെന്നു കണ്ടെത്തി ട്രാൻസ്ക്രിപ്ഷൻ നിയന്ത്രണം ആർഎൻഎ ഉപാപചയ പ്രക്രിയകൾ സെൽ മോട്ടിലിറ്റി അഡ്ഹറൻസ് ജംഗ്ഷനുകൾ തുടങ്ങിയവ അപ്പ് റെഗുലേഷനിൽ ഉൾപ്പെട്ടവയാണ് അതിനാൽ ജീൻ എക്സ്പ്രഷനിലെ ഈ വ്യത്യസ്ത മാറ്റങ്ങളെല്ലാം തന്നെ വലുപ്പത്തിൻ്റെ വർദ്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ തമ്മിൽ ഒരു പരസ്പരബന്ധമുണ്ട് കോശ വലുപ്പത്തിലെ വർദ്ധനവുമൂലം ഉണ്ടായ ജീൻ എക്സ്പ്രഷനിലെ വ്യത്യസ്തമാറ്റങ്ങൾ പ്രധാനമായും എംആർടിഎഫ് എ എസ്ആർഎഫ് പാതയിലൂടെയാണ് നടക്കുന്നത് എസ് ആർ എഫ് എന്നത് സിറം റെസ്പോൺസ് ഫാക്ടറാണ് നമ്മൾ കോശങ്ങളെ കൾച്ചർ ചെയ്യുമ്പോൾ സപ്ലിമെൻറ് ആയി സിറം എല്ലായിപ്പോഴും നൽകാറുണ്ട് ഈ സിറത്തിൽ കോശവളർച്ചയ്ക് ആവശ്യമായിട്ടുള്ള വളർച്ചാ ഘടകങ്ങൾ കൂടാതെ ഇ സി എം പ്രോട്ടീനുകൾ ഉൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങളുണ്ട് ഈ പ്രക്രിയകളെല്ലാം എസ്ആർഎഫ് പാത്തവേ ഉൾപ്പെടുന്നു ഹിസ്റ്റോൺ അസറ്റിലേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പിന്നീടവർ പരിശോധിച്ചു ലൈസിൻ 9 ലെ എച്ച് 3 അസറ്റിലൈഷൻ ലെവലുകൾ സാധാരണയായി എ സി എച്ച് 3 കെ 9 എന്ന് എഴുതപ്പെടുന്നു എച്ച് 3 കെ 9 ഒരു ഹിസ്റ്റോൺ അസറ്റിലേഷനാണ് ആകൃതി വ്യത്യസ്തമായിരുന്നാലും വിസ്തീർണ്ണം തുല്യമായിരുക്കുന്നിടത്തോളം ന്യൂക്ലിയർ വോള്യവും എച്ച് 3 കെ 9 അസറ്റിലേഷനും തുല്യമാണ് അതായത് രൂപങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ന്യൂക്ലിയർ വോളിയവും അസറ്റിലേഷൻ ലെവലും ഒരുപോലെയാണ് എന്നിരുന്നാലും ഒരേ രൂപത്തിനു തന്നെ വലുപ്പം വർദ്ധിക്കുമ്പോൾ ന്യൂക്ലിയർ അളവും എച്ച് 3 കെ 9 അസറ്റിലൈഷനും വർദ്ധിച്ചതായി അവർ കണ്ടെത്തി ഈ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ എച്ച് 3 കെ 9 അസറ്റിലേഷൻ ലെവലും ന്യൂക്ലിയർ വോള്യവും തമ്മിൽ ഒരു രേഖീയ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു സെൽ ജ്യാമിതിക്കും ആക്റ്റിൻ സൈറ്റോസ്ക്ലെട്ടനെ നിയന്ത്രിക്കുന്ന ഒരു പാത നിർദ്ദേശിച്ചു ആക്റ്റിൻ സൈറ്റോസ്ക്ലെട്ടന് എന്തെങ്കിലും ഉലച്ചിൽ തട്ടുകയാണെങ്കിൽ അതിൻറെ കൺട്രാക്ടിലിറ്റിയിൽ മാറ്റമുണ്ടാകുന്നു ഈ കൺട്രാക്ടിലിറ്റി ആത്യന്തികമായി എച്ച്ഡിഎസി 3 ലോക്കലൈസേഷൻ സൈറ്റോപ്ലാസ്മിക് ലോക്കലൈസേഷൻ എം ആർ ടി എഫ് ഇ യുടെ ന്യൂക്ലിയർ ഷട്ട്ലിംഗ് HDAC3 localization cytoplasmic localization and nuclear shuttling MRTFE എന്നിവയ്ക് കാരണമാവുന്നു ഇവയെല്ലാം ഒടുവിൽ ജീൻ എക്സ്പ്രഷൻ പാറ്റേണുകൾ നിർണ്ണയിക്കുന്ന ക്രോമാറ്റിൻ കണ്ടൻസേഷൻ ലെവലുകൾ തടസ്സപ്പെടുത്തുന്നു ഈ പ്രബന്ധം പി എൻ എ എസ് ൽ 2013 ൽ പ്രസിദ്ധീകരിച്ചതാണ് അടുത്തിടെ നടത്തിയ പരീക്ഷണമാണിത് അവർ വീണ്ടും പോളറൈസ്ഡ് ജ്യാമിതിയും വൃത്താകൃതിയിലുള്ള ജ്യാമിതിയും തിരഞ്ഞെടുത്തു ഈ സ്റ്റിറോയിഡിന് വലിയ പോളറൈസ്ഡ് ജ്യാമിതി ഉണ്ട് അല്ലെങ്കിൽ ഇത് നിയന്ത്രിത ഐസോട്രോപിക് ആണ് സെൽ ജ്യാമിതി ന്യൂക്ലിയർ ഡിഫോർമബിലിറ്റിയെയും ക്രോമാറ്റിൻ ഡൈനാമിക്സിനെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് അവർ ചോദിച്ചു അതിനാൽ അവർ വീണ്ടും ഈ ഐലൻഡുകളിൽ കോശങ്ങളെ പ്ലേറ്റ് ചെയ്തു അതായത് 3 ടി 3 ഫൈബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ ഈ ഐലൻഡുകളിൽ പ്ലേറ്റ് ചെയ്തു നിങ്ങൾക്ക് രണ്ട് ജ്യാമിതികൾ ഉണ്ട് നീളമേറിയതും വൃത്താകൃതിയിലുള്ളതും നീളമേറിയ ജ്യാമിതിയിൽ അവർ പ്രോമിനെന്റായുള്ള സ്ട്രെസ് ഫൈബറുകൾ കണ്ടു ഇത് വർദ്ധിച്ച കൺട്രാക്റ്റിലിറ്റിയുടെ സൂചനയാണ് അതേസമയം വൃത്താകൃതിയിലുള്ള ജ്യാമിതിയിൽ പ്രോമിനെന്റായുള്ള സ്ട്രെസ് ഫൈബറുകൾ വളരെ കുറവായിരുന്നു

ന്യൂക്ലിയർ ജ്യാമിതിയെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ജ്യാമിതികളിലും അവർ ഇങ്ങനെയാണ് കണ്ടെത്തിയത് ഞാൻ ന്യൂക്ലിയസിന് അകത്തേക്ക് നോക്കിയാൽ ന്യൂക്ലിയസിന് ഇതുപോലുള്ള ഒരു ജ്യാമിതി ഉണ്ടാകും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നീളമേറിയതാണ് പക്ഷേ ഇവിടെ ഉയരം കുറവാണ് വൃത്താകൃതിയിലുള്ള ജ്യാമിതിയിൽ ന്യൂക്ലിയസ് വൃത്താകൃതിയിലാകുമെന്നും അതിൻ്റെ ഉയരം കൂടുതലായിരിക്കുമെന്നും നിങ്ങൾ കരുതുന്നു അതിനാൽ ഇവിടെ ഇത് കുറവാണ് ഇത് കൂടുതൽ ആണ് ഈ ആകൃതി സ്ഥിരമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ന്യൂക്ലിയർ ഡൈനാമിക്സ് മാറുന്നത് ന്യൂക്ലിയർ ഡൈനാമിക്സിനെക്കുറിച്ച് മനസിലാക്കാൻ അവർ ഈ കോശങ്ങളെ ജിഎഫ്പി എച്ച് 2 ബി ഉപയോഗിച്ച് ട്രാൻസ്ഫെക്റ്റ് ചെയ്തു എച്ച് 2 ബി ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനാണ് ഇത് ഡിഎൻഎ യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ എച്ച് 2 ബി ഉപയോഗിച്ച് കോശങ്ങൾ ട്രാൻസ്ഫെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ നീളമുള്ള മുഴുവൻ ന്യൂക്ലിയസിൻ്റെയും രൂപരേഖ ത്രെഷോൾഡിംഗ് ഉപയോഗിച്ച് ട്രാക്കുചെയ്യാനാകും സമയത്തിൻ്റെ പ്രവർത്തനമായി ഈ രൂപങ്ങൾ എങ്ങനെയാണ് മാറുന്നതെന്ന് അവർ ചോദിച്ചു ഇതിൻ്റെ പരിണതഫലമായി ടൈം കോൺസ്റ്റൻറ് 1 ആകുമ്പോൾ ഒരു നിശ്ചിത എഡ്ജിലെ ജ്യാമിതി 1 ആയി നിങ്ങൾക്ക് ട്രാക്കു ചെയ്യാനാകും ഈ മുകളിലത്തെ ഉപരിതലം വിസ്തീർണ്ണമെന്നും ഈ ലംബ അക്ഷം സമയമായും കണക്കാക്കിയാൽ നിങ്ങൾക്ക് ഒരു ത്രിമാന ഉപരിതലം ലഭിക്കും ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഓരോ ഭാഗവും ഒരു ജ്യാമിതി നൽകും എൽപി ഐലൻഡ്കളിലെ അഥവാ ലാർജ് പോളറൈസ്ഡ് ഐലൻഡ്കളിലെ ഉപരിതലത്തിലെ ന്യൂക്ലിയസുകൾ വളരെ മിനുസമാർന്നതാണെന്ന് അവർ കണ്ടെത്തി ഇത് ന്യൂക്ലിയസിന് വിപരീതമാണ് കൈമോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉപരിതലം വരയ്ക്കുകയാണെങ്കിൽ വൃത്താകൃതിയിലുള്ള ഐലൻഡ്കളിൽ നിങ്ങൾക്ക് പരുക്കനായ ഒരു ഉപരിതലംലഭിക്കുന്നു ന്യൂക്ലിയർ ഏരിയയുടെ മാറ്റം ഐസോട്രോപിക് സിഐ ഡ്രോപ്പിംഗ് ഐലൻഡ്കളിൽ കൂടുതൽ വ്യക്തമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഞാൻ ന്യൂക്ലിയർ ഏരിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രൊജക്റ്റ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഏരിയയാണ് ന്യൂക്ലിയർ ഏരിയയുടെ അളവിൽ എത്രമാത്രം മാറ്റം ഉണ്ടായെന്ന് കണ്ടെത്തുന്നതിന് അവർ പ്രൊജക്റ്റ് ചെയ്ത ഏരിയയുടെ ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ പ്ലോട്ട് ചെയ്തു ഇത് നിങ്ങളുടെ ടൈം ആക്സിസ് ആണ് ലാർജ് പോളറൈസ്ഡ് ഐലൻഡ് കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സർക്കുലർ ഐലൻഡ്കളിൽ പെർസെൻ്റെജ് ഫ്ളക്ച്ചുവേഷൻ കൂടുതലാണ് ഇത് സർക്കുലർ ഐലൻഡ്കളുടെതാണ് ഇത് ലാർജ് പോളറൈസ്ഡ് ഐലൻഡ്കളുടേതും വൃത്താകൃതിയിലുള്ള ഐലൻഡ്കളിൽ ഏരിയ ഫ്ളക്ച്ചുവേഷൻ വളരെ ഉയർന്നതാണെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു ഉയർന്ന അളവിലുള്ള ഏറ്റക്കുറച്ചിലുകളെ അവർ ന്യൂക്ലിയർ ഡിഫോർമബിലിറ്റിയുമായി ബന്ധിപ്പിച്ചു ഇവിടുത്തെ ആശയം ഇതാണ് എതെങ്കിലും വസ്തു കട്ടിയുള്ളതാണെങ്കിൽ അത് ദീർഘകാലത്തേക്ക് അതിൻ്റെ ആകൃതി നിലനിർത്തും അതേസമയം കോശത്തിനുള്ളിൽ എതെങ്കിലും വസ്തു മൃദുവാണെങ്കിൽ എല്ലായ്പ്പോഴും ന്യൂക്ലിയസിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടന്ന് ന്യൂക്ലിയസ് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകും അതായത് സമയത്തിൻ്റെ പ്രവർത്തനമെന്ന നിലയിൽ എന്താണ് ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നതെന്ന് അവർ ചോദിച്ചു അവർ രണ്ട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അതായത് രണ്ട് തരത്തിൽ ആക്റ്റിനെ മാറ്റുന്ന പരീക്ഷണങ്ങൾ ഒന്നിൽ ആക്റ്റിനെ സൈറ്റോസ്ക്ലെട്ടൺ ഡി സൈറ്റോ ഡി നെറ്റ്വർക്ക് ഉപയോഗിച്ച് അവർ അസ്ഥിരമാക്കി മറ്റൊന്നിൽ ജാസ്പ്ലാക്കിനോലൈഡ് ഉപയോഗിച്ച് ദൃഡീകരിച്ചു എൻ്റെ വൈ അക്ഷം പെർസെൻ്റെജ് ഏരിയ ഫ്ളക്ച്ചുവേഷൻ ആണ് ദീർഘചതുരത്തിൽ സൈറ്റോസ്ക്ലെട്ടൺ ഡി ചേർക്കുമ്പോൾ ഏരിയ ഫ്ളക്ച്ചുവേഷൻ വർദ്ധിച്ചു പക്ഷേ വൃത്താകൃതിയിൽ സൈറ്റോസ്ക്ലെട്ടൺ ഡി ചേർക്കുമ്പോൾ ഏരിയ ഫ്ളക്ച്ചുവേഷൻ ഗണ്യമായി കുറയുന്നുവെന്ന് അവർ കണ്ടെത്തി പോളിമറൈസിംഗ് മരുന്നുകളുടെ ഫലങ്ങൾ വളരെ മോണോടോണിക് അല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇതിനായി അവർ വീണ്ടും പരീക്ഷണം നടത്തി ലാമിൻ എസി നോക്ക്ഡൌൺ കോശങ്ങളിൽ lamin AC knock down cells പരീക്ഷണം നടത്തിയപ്പോൾ വൃത്താകൃതിയിലുള്ള പാറ്റേണുകളിൽ ഏരിയ ഫ്ളക്ച്ചുവേഷൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതായി കണ്ടെത്തി പിന്നീട് നെസ്പ്രിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുകയും ഏരിയ ഫ്ളക്ച്ചുവേഷൻ നിരീക്ഷിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ ലിങ്കുകളുടെ മാറ്റങ്ങൾ ഭാഗികമായി ഫ്ളക്ച്ചുവേഷൻസിൻ്റെ ആംപ്ലിറ്റിയൂഡിനെ ബാധിക്കുന്നുവെന്ന് അവർ അനുമാനിച്ചു ആക്റ്റിൻ സൈറ്റോസ്കെൽട്ടൻ അസ്വസ്ഥമാകുമ്പോഴും ഫ്ളക്ച്ചുവേഷൻ കുറയുന്നുന്നുണ്ടായിരുന്നു പക്ഷേ അത് നിൽക്കുകയോ വർദ്ധിക്കുകയോ ചെയ്തില്ല അവസാന ഘട്ടമെന്ന നിലയിൽ അവർ ക്രോമാറ്റിൻ ഡൈനാമിക്സ് ട്രാക്കുചെയ്തു എച്ച് 2 ബി ജിഎഫ്പി ഉപയോഗിച്ച് ലേബൽ ചെയ്തതിലൂടെ ന്യൂക്ലിയസിനകത്തെ ഹെറ്ററോക്രോമാറ്റിക് കേന്ദ്രങ്ങളെ അവർ ട്രാക്ക് ചെയ്തു കൈമോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത് എൽപിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിഐയിലെ ഈ ഹെറ്ററോക്രോമറ്റിൻ കേന്ദ്രങ്ങൾ വേഗമേറിയ ചലനാത്മകത കാണിച്ചു ഇത് ആക്ടോമയോസിൻ കൺട്രാക്റ്റിലിറ്റിയോട് സംവേദനക്ഷമമാണ് മറ്റൊരു കാര്യം അതേ ന്യൂക്ലിയസിനുള്ളിൽ തന്നെ ഒന്നിലധികം കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ കേന്ദ്രങ്ങളുടെയെല്ലാം ചലനം യഥാർത്ഥത്തിൽ പരസ്പരബന്ധിതമാണെന്ന് അവർ കണ്ടെത്തി ബ്ലെബിസ്റ്റാറ്റിൻ മരുന്ന് ഉപയോഗിച്ച് ഈ കേന്ദ്രങ്ങളെ ട്രീറ്റ് ചെയ്തപ്പോൾ ഈ കോറിലേഷനിൽ മാറ്റം ഉണ്ടായി റഫർ സമയം 2621 എന്നാൽ ബ്ലെബിസ്റ്റാറ്റിൻ നീക്കം ചെയ്യുമ്പോൾ ഈ പ്രവർത്തനങ്ങളും നീക്കം ചെയ്യപ്പെട്ടു ഈ കേന്ദ്രങ്ങളുടെ സഞ്ചാരപഥം പരിശോധിച്ചാൽ ഈ കേന്ദ്രങ്ങൾ സൈറ്റോ ഡിയുമായി പരസ്പരബന്ധിതവും സംവേദനക്ഷമവുമായിരുന്നു എന്നു കാണാം എന്നാൽ സ്ഥാനങ്ങൾ മാറ്റിയതിനു ശേഷം കോറിലേഷൻ മാപ്പ് പുനസ്ഥാപിക്കപ്പെട്ടു ഈ പരീക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഇമ്പ്രിൻ്റ് ഉണ്ട് എന്നതാണ് അതായത് ക്രോമാറ്റിൻ മാപ്പിൻ്റെ ഒരു ഘടനയുണ്ട് ഈ ഘടനകളെ നിയന്ത്രിക്കുന്നത് കൺട്രാക്റ്റിലിറ്റി പോലുള്ള ഒന്നിലധികം ശക്തികളാണ് ആക്റ്റിൻ സൈറ്റോസ്ക്ലെട്ടൺ ലാമിൻ എസി നെസ്പ്രിനുകൾ അല്ലെങ്കിൽ ലിങ്ക് ഡൊമെയ്ൻ ക്രോമാറ്റിൻ actin cytoskeleton lamina AC nesprins or link domain chromatin തുടങ്ങിയവയെല്ലാം കൂടിച്ചേർന്ന് ടീലോമിയറുകളെ നിയന്ത്രിക്കുന്നു ടീലോമിയറുകൾ ക്രോമാറ്റിൻ്റെ അവസാന ഭാഗങ്ങളാണ് ഇതോടുകൂടി ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു രണ്ട് പ്രബന്ധങ്ങൾ റീഡിംഗ് അസൈൻമെന്റായി വായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഈ രണ്ട് പേപ്പറുകളും ഒരു ജ്യാമിതീയ പാറ്റേൺ ഉപയോഗിക്കുന്നു ആകൃതിയുടെയും വലുപ്പത്തിൻ്റെയും പ്രവർത്തനമായി ഈ എപിജനെറ്റിക് മോഡിഫിക്കേഷനുകൾ എങ്ങനെ സംഭവിക്കുന്നുവെന്നും സൈറ്റോസ്ക്ലെട്ടൺ ഘടകങ്ങൾ തടസ്സപ്പെടുമ്പോൾ ന്യൂക്ലിയസിനുള്ളിലെ ടീലോമിയർ ഡൈനാമിക്സ് എങ്ങനെ മാറുന്നുവെന്നും പഠിക്കുക